കോണിക് സെക്ഷൻസ് X എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ 18 ലാണ് നിൽക്കുന്നത് ഈ മൊഡ്യൂളിൽ നമ്മൾ കോണിക് വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു പ്രത്യേകിച്ചും പ്രത്യേക കർവുകളെക്കുറിച്ച് പഠിക്കുന്നു അവസാന ക്ലാസ്സിൽ നമ്മൾ പ്രത്യേക വക്രങ്ങൾ അവതരിപ്പിച്ചു അതായത് സൈക്ലോയിഡുകൾ സ്പൈറലുകൾ ഇൻവലിയൂട്ടുകൾ ഹെലിക്സ് അടുത്ത ക്ലാസിൽ ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കാം എന്ന് പറഞ്ഞു നമ്മൾ നിർത്തി അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ സൈക്ലോയിഡ് എന്ന പ്രത്യേക കർവിനെ ക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു ഒന്നാമതായി ഈ സൈക്ലോയിഡ് വളവുകൾ എവിടെയാണ് കാണുന്നത് എന്ന് നമ്മൾ ചോദിക്കും ഉദാഹരണത്തിന് നമുക്ക് ഒരു സൈക്കിൾ സ്പ്രോക്കറ്റും ഗിയറുകളും സ്ഥിതിചെയ്യുന്ന മോട്ടോർ ചക്രങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെഷിനറികൾ ഗിയറുകൾ പ്രധാനമായും സ്ഥിതിചെയ്യുന്ന ഫാം മെഷിനറികൾ എന്നിവ നോക്കിയാൽ ഈ സൈക്ലോയിഡ് വളവുകൾ വളരെ സാധാരണമായി കാണാൻ കഴിയും സൈക്ലോയിഡ് കർവുകൾ ഗിയറുകളുമായി മേറ്റിങ് മികച്ച കാര്യക്ഷമത നൽകുന്നു അതിനാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മേറ്റിങ് പ്രതലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രിക്ഷൻ ലോസ്സ് അൽപ്പം കുറവായിരിക്കും അവ അൽപ്പം മിനുസമാർന്നതും ഉപരിതലത്തിൽ വളരെ കുറഞ്ഞ സ്ലിപ്പുള്ള ഷാഫ്റ്റിന് അനുസൃതമായി പവർ കൈമാറുന്നതുമാണ് അതിനാൽ ആ ഭാഗം ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ ഈ പല്ലുകൾ മറ്റ് പല്ലുകളുമായി ചേരുന്ന മെഷീൻ ഗിയറാണിത് ഉദാഹരണത്തിന് ഈ നീല മെഷീൻ ഗിയറാണ് ഒരു ബേസ് പിച്ച് വൃത്തം അല്ലെങ്കിൽ ബേസ് വൃത്തം അല്ലെങ്കിൽ പിച്ച് വൃത്തം അടിസ്ഥാനമാക്കിയാണ് ഈ മെഷീൻ ഗിയർ നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഉദാഹരണത്തിന് ഒരു നിശ്ചിത ദൂരത്തെ അടിസ്ഥാനമാക്കി ഇത് നമ്മൾ വലതുവശത്ത് നോക്കുന്ന ഗിയറാണെങ്കിൽ ഇത് കേന്ദ്രമാണെങ്കിൽ ഈ ഗിയറിന്റെ ശരാശരി തലത്തിൽ ഈ കേന്ദ്രത്തെ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ആകാം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ദൂരം എന്തായാലും നമ്മൾ ഒരു വൃത്തം നിർമ്മിക്കുകയും അതിനെ അടിസ്ഥാന വൃത്തം എന്ന് വിളിക്കുകയും ചെയ്യും അതിനാൽ ഇതാണ് അടിസ്ഥാന വൃത്തം അടിസ്ഥാന വൃത്തത്തിന് മുകളിൽ നമുക്ക് ഈ അരികുകളുണ്ട് അതിനാൽ ഇവയെ പാർശ്വഭാഗങ്ങൾ എന്ന് വിളിക്കുന്നു നമുക്ക് മറ്റ് നിറങ്ങൾ ഉപയോഗിക്കാം ഇത് ഒരു പാർശ്വഭാഗമാണ് ഇത് മറ്റൊന്നാണ് മുകളിലെ വശത്തും താഴത്തെ ഭാഗത്തും ഈ പാർശ്വഭാഗങ്ങൾ നമ്മൾ കാണും കൂടാതെ ഈ മുകളിലെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളെ അഡെൻഡം ഫ്ലാങ്കുകൾ എന്നും താഴെയുള്ളവയെ ഡിഡെൻഡം ഫ്ലാങ്കുകൾ എന്നും വിളിക്കുന്നു കൂടാതെ ഈ കർവ് സാധാരണയായി ഒരു സൈക്ലോയിഡ് നിന്നും നിർമ്മിച്ചതാണ് ഉദാഹരണത്തിന് ഈ അടിസ്ഥാന വൃത്തത്തിൽ നമുക്ക് ഒരു വൃത്തം കൂടി പരിഗണിക്കാം ഈ ഓറഞ്ച് വൃത്തം ഉരുളുന്നു ഇത് ഈ ദിശയിൽ കറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് പി തിരഞ്ഞെടുക്കാം സൈക്ലോയിഡ് എന്ന് വിളിക്കുന്ന കർവ് ഈ ദിശയിലേക്കാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ട്രാക്കുചെയ്യുന്നത് ഈ അടിസ്ഥാന വൃത്തത്തിന്റെ മുകളിലുള്ള വൃത്തത്തിനെ ഒരു നിശ്ചിത നീളം വരെ നമ്മൾ അതിനെ എപ്പിസൈക്ലോയിഡ് എന്ന് വിളിക്കുന്നു കാരണം ഇത് മറ്റൊരു വൃത്തത്തിന്റെ മുകളിലൂടെ ഉരുളുന്നു സൈക്ലോയിഡുകൾ സാധാരണയായി ഒരു നേർരേഖയിൽ ഉരുളുന്നു എപ്പിസൈക്ലോയിഡുകളിൽ ഈ വൃത്തം തുടർച്ചയായി മറ്റൊരു വൃത്തത്തിന് മുകളിലൂടെ ഉരുളുന്നു അതുപോലെ കർവിന്റെ അടിഭാഗത്തെ ഹൈപ്പോസൈക്ലോയിഡ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഈ പച്ച നിറത്തിലുള്ള ഒരു രേഖയുണ്ട് കർവിന്റെ ഒരു ഭാഗം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് അതിനെ ഈ ഹൈപ്പോസൈക്ലോയിഡ് എന്ന് വിളിക്കുന്നു അതിനാൽ ഗിയർ നിർമ്മാണത്തിന് സൈക്ലോയിഡുകൾ വളരെ സാധാരണമാണ് അതുപോലെ നമുക്ക് പെൻഡുലം അല്ലെങ്കിൽ ഒരു ഐസോക്രോണസ് പെൻഡുലം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പെൻഡുലം ഒരു കയർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ കയർ ഈ സ്ഥലത്തിന്റെ സ്ഥാനത്തേക്ക് കാലത്തിനനുസരിച്ച് പോകുന്നു ഈ പോയിന്റിനൊപ്പം കർവും മുകളിലേക്കും താഴേക്കും പോകുന്നു നമ്മൾ ഈ വളവുകൾ ട്രാക്കുചെയ്യുകയാണെങ്കിൽ അത് സൈക്ലോയിഡുകൾ ഉണ്ടാക്കുന്നു അതുപോലെ ഇതും ഒരു സൈക്ലോയിഡ് ആണ് അതുപോലെ നമ്മൾ ഈ കമാനങ്ങളിലേക്ക് ഒരു വാസ്തുവിദ്യാ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുകളിലെ ഭാഗങ്ങൾ സൈക്ലോയിഡ് കർവുകൾ ഉണ്ടാക്കുന്നു ഇനി ജ്യാമിതീയമായി ഒരു സൈക്ലോയിഡ് കർവ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം അത് ചെയ്യുന്നതിന് ആദ്യം ഒരു ബേസ് ലൈനിൽ ഉരുളുന്ന ഒരു ജനറേറ്റിംഗ് വൃത്തം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ജനറേറ്റിംഗ് സർക്കിൾ ഇതാണ് ഇതാണ് ഈ അടിസ്ഥാന ലൈനിലെ റോളിംഗ് വൃത്തം അത് കഴിഞ്ഞു നമ്മൾ ഒരു പോയിന്റ് പി കണ്ടെത്തുന്നു ഈ പോയിന്റിലെ ചലനം നമ്മൾ ട്രാക്കുചെയ്യുന്നു അതിനായി നമ്മൾ ചെയ്യുന്നത് ഈ സർക്കിളിനെ 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക എന്നതാണ് ആ രീതിയിൽ നമ്മൾ 12 തുല്യ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു അവയ്ക്ക് 1 2 3 4 എന്നിങ്ങനെ നാമകരണം ചെയ്യും അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ 1 2 3 4 5 6 പോയിന്റുകളിലേക്ക് സമാന്തര രേഖകൾ വരയ്ക്കുന്നു അതിനാൽ പോയിന്റ് 1 ഇൽ നിന്നും നമ്മൾ ഒരു സമാന്തര രേഖ വരയ്ക്കുന്നു അതുപോലെ തന്നെ പോയിന്റ് 2 ൽ നിന്ന് നമ്മൾ മറ്റൊരു സമാന്തര രേഖ വരയ്ക്കും അതുപോലെ തന്നെ 3 4 5 6 7 8 പോയിന്റുകളിൽ നിന്നും പി പോയിന്റിൽ നിന്നും നമ്മൾ ഇത് ആവർത്തിക്കുന്നു അതിനുശേഷം ഒരു കോമ്പസ് ഉപയോഗിച്ച് ഈ തിരശ്ചീന രേഖകളിൽ ഈ കർവിന്റെ വിഭജന പോയിന്റുകൾ കണ്ടെത്താൻ നമ്മൾ പോകുന്നു അതിനാൽ ഈ വൃത്തം വിഭജിക്കുമ്പോൾ നമുക്ക് 12 തുല്യ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു 1 2 3 4 5 6 പോയിന്റുകളിൽ നിന്ന് നമ്മൾ തിരശ്ചീന രേഖകൾ വരയ്ക്കുന്നു ഈ 1 2 3 4 5 ലംബ ദിശയിൽ നീട്ടിക്കൊണ്ട് മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖയെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു ഓരോന്നും കേന്ദ്രമായി തിരഞ്ഞെടുത്ത് ആദ്യ രേഖയിൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുക ഉദാഹരണത്തിന് ഈ ഒരു പോയിന്റ് തിരഞ്ഞെടുത്ത് ആദ്യ രേഖയിൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുക C1 കേന്ദ്രമായി തിരഞ്ഞെടുത്ത് ഒരു ആർക്ക് അടയാളപ്പെടുത്തുക അടുത്തതായി മറ്റൊരു ആർക്ക് അടയാളപ്പെടുത്തുന്നതിന് C2 കേന്ദ്രമായി തിരഞ്ഞെടുക്കുക അതുപോലെ C3 കേന്ദ്രമായി മറ്റൊരു ആർക്ക് അടയാളപ്പെടുത്തുക ഈ പോയിന്റുകളെല്ലാം ചേർക്കുമ്പോൾ ഒരു സൈക്ലോയിഡ് ഉണ്ടാകുന്നു നമ്മുടെ ഗ്രാഫ് ഷീറ്റ് ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി ആ നടപടിക്രമങ്ങൽ നോക്കാം ആദ്യം നമ്മൾ തിരഞ്ഞെടുത്ത ദൂരത്തിൽ ഒരു വൃത്തം വരയ്ക്കുകയും 2πr ദൂരം ഉപയോഗിച്ച് ഒരു തിരശ്ചീന രേഖ വരയ്ക്കുകയും വേണം അതിനാൽ നമുക്ക് 2πr നീളമുള്ള ഒരു ജനറേറ്റിംഗ് രേഖ വരയ്ക്കാം ഒരുപക്ഷേ r നമുക്ക് 3 സെന്റീമീറ്റർ ആയി തിരഞ്ഞെടുക്കാം അതിനാൽ 2πr നീളം 2 × 3 14 × 3 സെന്റീമീറ്റർ ആണ് അതിനാൽ നമുക്ക് ഉപയോഗിക്കേണ്ട നീളം 18 84 ആയി ലഭിക്കുന്നു ഇപ്പോൾ ജ്യാമിതിയിൽ ഇത് തിരഞ്ഞെടുക്കുന്നതിൽ എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടാണ് അതിനാൽ സാധാരണയായി നമ്മൾ 20 സെന്റീമീറ്റർ രേഖ വരയ്ക്കുകയും തുല്യ ദൂരം നിർമ്മിക്കുകയും ചെയ്യുന്നു ഒരു വൃത്തം നിർമ്മിക്കുന്നതിന് തുല്യമായ ദൂരം ഉപയോഗിക്കുക അതിനാൽ നമ്മൾ ഇത് അതേ രീതിയിൽ ചെയ്യും ഒന്നാമതായി നമുക്ക് 10 യൂണിറ്റുകളുള്ള അടിസ്ഥാന രേഖ നിർമ്മിക്കാം അതിനാൽ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന അടിസ്ഥാന രേഖ ഇവിടെ അവസാനിക്കുന്നു അതിന്റെ നീളം 100 മില്ലിമീറ്ററാണ് നമുക്ക് ആ പോയിന്റിനെ 1 എന്ന് വിളിക്കാം കൂടാതെ ഈ 100 മില്ലീമീറ്ററിനെ 12 തുല്യ ഡിവിഷനുകളായി തിരിക്കാം അതിനാൽ ഒരു ചെരിഞ്ഞ രേഖ വരച്ച് 1 2 3 4 5 6 7 8 9 10 11 12 പോയിന്ററുകൾ അടയാളപ്പെടുത്തി 12 തുല്യ ഡിവിഷനുകളായി വിഭജിക്കുക ഇപ്പോൾ ഈ പോയിന്റ് 12 ലേക്ക് ചേരുക ഈ ദിശയിൽ സമാന്തരമായി പോകുക അതിനാൽ നമുക്ക് ഈ പോയിന്റുകൾ ശരിയായി അടയാളപ്പെടുത്താൻ കഴിയും 12 ഡിവിഷനുകൾ ശ്രദ്ധാപൂർവ്വം അടയാളപ്പെടുത്തുക അതിനാൽ ഇവയാണ് പോയിന്റുകൾ അവയെ 1 2 3 4 2 3 4 5 6 7 8 9 10 11 എന്ന് അടയാളപ്പെടുത്തുക നമ്മൾ ഇത് 12 ആയിട്ടാണ് നിർമ്മിച്ചതെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നമ്മൾ ഈ നീളം അളക്കാൻ പോകുന്നു അതിനാൽ ഈ നീളം 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ പോകുന്നു 1 2 3 4 5 6 7 8 9 10 11 12 പോയിന്ററുകൾ ലഭിക്കുന്നു പി പോയിന്റ് മുതൽ 12 വരെ നൊട്ടേഷൻ ആരംഭിക്കുന്നു അതിനാൽ ഈ പോയിന്റിനെ പി 1 2 3 4 5 6 7 8 9 10 11 12 പോയിന്റുകൾ എന്ന് വിളിക്കാം ഇത് 100 മില്ലീമീറ്റർ അതിനാൽ 2πr ലഭിക്കുന്നതിന് തുല്യമായ ദൂരം 100 മില്ലീമീറ്ററിന് തുല്യമാണെന്ന് കണക്കാക്കാൻ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക അതിനാൽ 1002 3 1416 നമുക്ക് 15 9 മിമി നൽകുന്നു നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏകദേശ വൃത്തമാണിത് അതിനാൽ ആദ്യം നമുക്ക് 15 മുതൽ 16 മില്ലീമീറ്റർ വരെ അടയാളപ്പെടുത്താം അതിനാൽ ഈ കേസിൽ നമുക്ക് ഉണ്ടായിരിക്കാവുന്ന ലീസ്റ്റ് കൌണ്ട് 16 മില്ലീമീറ്ററാണ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വലിയ സർക്കിൾ എടുക്കുക എന്നതാണ് അതിനാൽ നമുക്ക് ലീസ്റ്റ് കൌണ്ട് വർദ്ധിപ്പിക്കാനും നീളം കൂട്ടാനും കഴിയും അതിനാൽ ഈ നീളം ഉപയോഗിച്ച് പി പോയിന്റിൽ നിന്ന് ഒരു വൃത്തം വരയ്ക്കുക ഈ വൃത്തത്തിനെ 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതിനർത്ഥം 30° ആംഗിൾ ആണ് നമുക്ക് ഇതിനു ഉപയോഗിക്കാൻ കഴിയുന്നത് അതിനാൽ 30 60 90 120 150 180 ആംഗിളുകൾ അടയാളപ്പെടുത്തുക ഈ രേഖകൾ ചേർക്കാൻ നമ്മുടെ സ്കെയിൽ ഉപയോഗിക്കുക അതുപോലെ ഈ 30° രേഖയിൽ ചേർക്കുക ഇതിലും ചേർക്കുക അതിനാൽ നമ്മൾ 12 ഡിവിഷനുകൾ ഉണ്ടാക്കുന്നു നമുക്ക് 24 ഡിവിഷനുകളും വേണമെങ്കിൽ ഉണ്ടാക്കാം അതിലൂടെ ഒരു മികച്ച കർവ് ട്രാക്കു ചെയ്യാനാകും ഇപ്പോൾ അവ ശ്രദ്ധാപൂർവ്വം പേരുനൽകുക എല്ലായ്പ്പോഴും ഇവിടെ എവിടെയെങ്കിലും പോയിന്റ് P അടയാളപ്പെടുത്തുക അതിനാൽ സർക്കിൾ ഒരു രേഖയിൽ കറങ്ങുന്നതിനാൽ നമുക്ക് ഇപ്പോൾ സമാന്തരമായി ഈ രേഖ വരയ്ക്കാം അതിനാൽ ഈ രേഖയിലാണ് ഇത് ഉരുളാൻ പോകുന്നത് ഇതാണ് കേന്ദ്രങ്ങൾ ഇപ്പോൾ ഈ രേഖകളിലൂടെ ലംബങ്ങൾ വരയ്ക്കുക ഇതാണ് രേഖ ഈ പോയിന്റുകളിലൂടെ 1 2 3 4 രേഖ കൾ അടിസ്ഥാനത്തിലേക്കുള്ള എല്ലാ വഴികളും നിർമ്മിക്കുന്നു ഈ നിർമ്മാണ രേഖകളിൽ ശ്രദ്ധാലുവായിരിക്കണം അത് 6 7 8 9 11 വരെയും പിന്നീട് 12 രേഖകളിലേക്കും പോകുന്നു നമുക്ക് അടിത്തറ ഇരുണ്ടതാക്കാം ഇതാണ് നമ്മുടെ വൃത്തം ഉരുളുന്ന അടിസ്ഥാനം ഇവ മധ്യരേഖകളാണ് സി 1 സി 2 സി 3 സെന്റർ പോയിന്റുകളാണ് ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന തിരശ്ചീന രേഖകൾ വരയ്ക്കുക ഇപ്പോൾ ഇതാണ് കർവ് നമുക്ക് ഈ പോയിന്റുകൾ 1 2 3 4 5 6 എന്നിങ്ങനെ അടയാളപ്പെടുത്താം അതിനാൽ നമുക്ക് കുറച്ച് തിരശ്ചീന രേഖകൾ വരയ്ക്കാം ഇത് ആദ്യത്തേതാണ് ഇത് രണ്ടാമത്തേതാണ് മൂന്നാമത്തേത് അവിടെ പോകുന്നു നാലാമത്തേതും 5 ഉം 7 ഉം ആ വഴിയിലൂടെ പോകുന്നു 6 ഉം ആ വഴിയിലൂടെ പോകുന്നു അതിനാൽ ഈ രേഖകളിൽ നമ്മൾ കമാനങ്ങൾ നിർമ്മിക്കണം അതിനാൽ ഒന്നാമതായി കോമ്പസ് സർക്കിൾ ആരം എന്നിവ ഉപയോഗിച്ച് സി 1 സി 2 സി 3 C1 C2 C3 മധ്യഭാഗങ്ങൾ ആക്കി രേഖകളിൽ ആർക്കുകൾ നിർമിക്കുക അതിനാൽ ഒന്നാമതായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ആരം ഇതാണ് ഇപ്പോൾ സി 1 ൽ നിന്ന് ഒന്നാം രേഖയിൽ ഒരു ആർക്ക് വരയ്ക്കുക എവിടെയെങ്കിലും ആ പോയിന്റ് കണ്ടെത്തുക അതിനാൽ ആദ്യത്തെ പോയിന്റ് അതാണ് രണ്ടാമത്തെ പോയിന്റ് അതാണ് സി 2 ൽ നിന്ന് അത് രണ്ടാമത്തെ വരിയിൽ കണ്ടെത്തുക അതിനാൽ ആദ്യ പോയിന്റ് അത് അവിടെ കണ്ടെത്തുക രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു വക്രം കണ്ടെത്തുക മൂന്നാം പോയിന്റിൽ നിന്ന് അത് ഇവിടെ കണ്ടെത്തുന്നു നാലാമത്തെ പോയിന്റ് അത് ഇവിടെ കണ്ടെത്തുന്നു അതുപോലെ അഞ്ചാം പോയിന്റിൽ നിന്നും ആറാം പോയിന്റിൽ നിന്നും ഒരു ആർക്ക് ഉണ്ടാക്കുക അതിനാൽ നമുക്ക് ഈ പോയിന്റുകളിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത് എന്നിവ ചേർക്കാം അതിനാൽ അതിലൂടെ കടന്നുപോകുന്ന ഈ പോയിന്റുകൾ നമുക്ക് ചേർക്കാം നമുക്ക് അത് ഏഴാമത്തെ രേഖ വരെ നീട്ടാം എട്ടാമത്തെ പോയിന്റ് അവിടെ പോകുന്നു അതുപോലെ 10 ാം നമ്പർ പോയിന്റ് 10 ാം രേഖയിലായിരിക്കും അതിനാൽ ഇവ 7 8 9 10 രേഖകളാണ് അതിനാൽ 10 ൽ നിന്ന് ഒരു കമാനം ഉണ്ടാക്കുക അതിൽ 11 ാമതും 12 ഉം വീണ്ടും ആ സ്ഥാനത്തേക്ക് വരുന്നു ഇങ്ങനെ ആണ് നമ്മൾ ഒരു സൈക്ലോയിഡ് നിർമ്മിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ ഒരു സ്പൈറലും ഇൻവലിയൂട്ടും എങ്ങനെ നിർമിക്കാം എന്ന് നമ്മൾ പഠിക്കും